സുപ്രഭാതം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ നൽകാൻ പോകുന്ന ഇപ്പോഴത്തെ പ്രഭാഷണം അഭിമുഖങ്ങളെ അഭിമുഖീകരിക്കുന്നതിനാണ് നിങ്ങൾ ഒരു ജോലിക്കായി അപേക്ഷിച്ചതായി സങ്കൽപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ജോലികൾക്കായി അപേക്ഷിക്കുകയും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോൾ ലഭിക്കുകയും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു അഭിമുഖ കോൾ ലഭിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ അതേ സമയം നിങ്ങൾ അഭിമുഖീകരിക്കുന്നു ഭയം നമ്മളെല്ലാവരും കാരണം അഭിമുഖ കോൾ വരുമ്പോൾ തീർച്ചയായും അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു പക്ഷേ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അവിടെയുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നു പ്രതികരണങ്ങൾ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു പക്ഷേ അവർ എന്ത് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല അതേസമയം ചില മേഖലകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ചോദിച്ചേക്കാവുന്ന ചില തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചിന്തിക്കാൻ കഴിയും ഇത് നിങ്ങളെ വിജയിപ്പിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പ്രതികരണമാണോ മറ്റ് ഘടകങ്ങൾ നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ മറ്റ് കാറ്റഗറി ഘടകങ്ങൾ സമീപിക്കാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല കാരണം തയ്യാറെടുപ്പാണ് ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് ഞാൻ വളരെക്കാലമായി പറയുന്നു പക്ഷേ ചോദ്യം എങ്ങനെ മുൻകൂട്ടി അറിഞ്ഞു തയ്യാറാക്കാം ചോദ്യങ്ങളുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ചോദ്യങ്ങൾ ഓപ്പൺ ആയിരിക്കാം ചോദ്യങ്ങൾ ക്ലോസ്ഡ് ആയിരിക്കാം അത് അന്വേഷിച്ചേക്കാം അത് പ്രതിഫലിപ്പിക്കുന്നതാകാം അത് ലോഡുചെയ്ത ചോദ്യങ്ങൾ സാങ്കൽപ്പിക ചോദ്യങ്ങൾ നയിക്കുന്ന ചോദ്യങ്ങൾ പ്രധാന ചോദ്യങ്ങൾ ഇവ ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളുടെ സ്വഭാവമാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പിന്നീട് ചർച്ചചെയ്യും പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസിലാക്കുന്നതിനുമുമ്പ് ആദ്യം നമ്മെത്തന്നെ തയ്യാറാക്കാം കാരണം ആദ്യം സ്വയം ആത്മവിശ്വാസം പുലർത്തണം കാരണം അഭിമുഖം നടത്തുന്നയാൾ നിങ്ങളെ ആദ്യം നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥരാക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും എല്ലാ ഉള്ളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് നന്നായി ഉത്തരം നൽകാമെന്ന് സ്വയം പറയുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മിക്ക അഭിമുഖങ്ങളും തീരുമാനിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ മാത്രമാണ് ഇപ്പോൾ ക്ഷമയുടെ ഏറ്റവും നല്ല മാർഗം എന്താണ് പലരും ഇന്റർവ്യൂ ബോർഡിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരേ സമയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമെന്നും നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പായി ചിലപ്പോൾ ഇത് സംഭവിക്കുമെന്നും ചിന്തിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല മാർഗം ക്ഷമയാണ് ഇപ്പോൾ എങ്ങനെ ക്ഷമിക്കണം ക്ഷമിക്കാൻ നിങ്ങൾക്ക് എന്തുചെയ്യാനാകും ആദ്യത്തേത് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടായിരിക്കണം ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവാണ് ഈ ആകാശം താഴേക്ക് വീഴുകയാണെന്നോ ഭൂമി തകരുമെന്നോ കരുതരുത് എന്ന് ഞാൻ അർത്ഥമാക്കുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം ശരിയാകും അതിനാൽ ക്ഷമയോടെ പെരുമാറുക പോസിറ്റീവായിരിക്കുക മാത്രമല്ല അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ തന്ത്രപരമായിരിക്കണമെന്ന് നിങ്ങളുടെ തന്ത്രം ഉപയോഗിക്കേണ്ടതുണ്ട് ഞാൻ തന്ത്രം പറയുമ്പോൾ ഒരു പ്രത്യേക ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകാൻ പോകുന്ന രീതി നിങ്ങളുടെ വാക്യങ്ങൾ സംയോജിപ്പിക്കാൻ പോകുന്ന രീതി നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്ന രീതി എന്നിവയും ഞാൻ അർത്ഥമാക്കുന്നു കൂടാതെ നിങ്ങളുടെ അവബോധം ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾ ക്ഷമയോടെയിരിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണം അതിനാൽ നിങ്ങൾക്ക് പൂർണ ആത്മവിശ്വാസമുണ്ടെന്നും നിങ്ങൾ ഉർജ്ജസ്വലനായി ഇരിക്കുകയും വേണം പ്രിയ സുഹൃത്തുക്കളേ നിങ്ങൾക്ക് ഇവയെല്ലാം എങ്ങനെ നേടാനാകുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല മാത്രമല്ല അസ്വസ്ഥതകളെക്കുറിച്ചുള്ള എന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അസ്വസ്ഥതകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം ചില സമയങ്ങളിൽ നിങ്ങളെ നിരുത്സാഹപെടുത്തുന്നത് ഭയമാണ് അതിനാൽ നിങ്ങൾക്ക് നാഡി നിയന്ത്രണം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുക നിങ്ങൾ ചെയ്യും അതിനാൽ നിങ്ങളുടെ അസ്വസ്ഥതകൾ നിയന്ത്രിക്കുക പ്രതിജ്ഞാബദ്ധരായി തുടരുക അതിനാൽ റഫർ സമയം 0703 ഒരുതരം നിരാശ കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങളുടെ മുഖത്ത് എഴുതിയതാണെന്ന് നിങ്ങൾ വീണ്ടും ഓർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായി തുടരണം നിങ്ങൾ ആത്മാർത്ഥമായി തുടരണം എന്നിട്ട് ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് ചിന്തിക്കണം എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പോൾ ആത്മവിശ്വാസം പുലർത്തുന്നതിന് ഞങ്ങളുടെ അറിവ് പ്രദർശിപ്പിക്കുന്നതിലൂടെ മാത്രമേ ആത്മവിശ്വാസമുണ്ടാകൂ അഭിമുഖത്തിന്റെ പകുതിയും നിങ്ങളുടെ നോൺ വെര്ബല് പെരുമാറ്റത്തിലൂടെ വിജയിച്ചു അതിനാൽ നിങ്ങൾ വാചാലമായി വളരെ പോസിറ്റീവായതിനാൽ വളരെ പ്രതിബദ്ധതയുള്ളയാളാണ് ചോദ്യം ചോദിക്കുമ്പോൾ സംഭാഷണത്തെ നയിക്കാൻ അനുവദിക്കുക ചിലപ്പോഴൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കാരണം ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ വളരെയധികം ആവേശഭരിതരാണ് കാരണം മുഴുവൻ ചോദ്യവും കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആരംഭിക്കുകയും അത് നിങ്ങളെ കുഴപ്പത്തിലാക്കുകയും ചെയ്യും അതിനാൽ അഭിമുഖം നടത്തുന്നയാൾ സംഭാഷണത്തെ നയിക്കട്ടെ ചോദ്യം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉത്തരം നൽകരുതെന്ന് ഉപദേശിക്കുന്നു നിങ്ങൾ ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകുന്നതല്ല മറ്റെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാമെന്ന ധാരണയുണ്ട് ഒരുതരം കമ്പോസർ നിലനിർത്തുന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ് കുറച്ച് സമയവും ഉത്തരവും താൽക്കാലികമായി നിർത്തുക തിടുക്കത്തിൽ പോകേണ്ട ആവശ്യമില്ല വളരെ വേഗത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അവരെക്കാൾ വേഗത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് അവരെ കാണിക്കേണ്ട ആവശ്യമില്ല എല്ലായ്പ്പോഴും ഒരു ബാലൻസ് സൃഷ്ടിക്കുന്നതാണ് നല്ലത് അതിനാൽ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദയവായി ഒരു താൽക്കാലികമായി നിർത്തുക എന്നിട്ട് നിങ്ങൾ ഉത്തരം നൽകുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുക അഭിമുഖം നടത്തുന്നയാളെ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതിനകം ഒരു പ്രഭാഷണത്തിൽ ചർച്ചചെയ്തു കേൾക്കുക എത്ര പ്രധാനമാണ് എന്ന് നിങ്ങൾ ഉടനീളം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ചോദ്യം കേൾക്കുന്നതുവരെ ശരിയായ രീതിയിൽ ഉത്തരം നൽകാനുള്ള ശരിയായ മാനസികാവസ്ഥയിൽ നിങ്ങൾ ഉണ്ടാകില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ പോസിറ്റീവ് ആകണം നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം നമുക്ക് ആത്മവിശ്വാസമുണ്ടായിരിക്കണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ രൂപഭാവത്തിലൂടെ ആദ്യം നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലായ്പ്പോഴും വർദ്ധിപ്പിക്കാൻ കഴിയും രൂപം എന്നാൽ നാം എന്താണ് അർത്ഥമാക്കുന്നത് ഇത് രൂപകാഴ്ച്ചയാണ് അല്ല അത് രൂപകാഴ്ച മാത്രമല്ല നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ ഇരിക്കുന്ന രീതി വികാരങ്ങൾ നിങ്ങളുടെ മുഖത്ത് പടരുന്ന രീതി നിങ്ങൾ ഉത്സാഹം കാണിക്കുന്ന രീതി നിങ്ങൾ സ്വയം മനോഹരമാക്കുന്നതിന് ചില തയ്യാറെടുപ്പുകൾ നടത്തി അതിനാൽ നിങ്ങളുടെ ഭാവം മാത്രമല്ല നിങ്ങളുടെ രൂപഭാവം മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക കാരണം രൂപം ചിലപ്പോൾ വഞ്ചനാപരമായിരിക്കാം മാത്രമല്ല ഈ വഞ്ചന എല്ലായ്പ്പോഴും നിരവധി വർഷത്തെ പരിചയമുള്ള ആളുകൾ കണ്ടെത്തുകയും അവർക്ക് നിങ്ങൾ ശ്രമിക്കുന്ന രീതി കണ്ടെത്താനും കഴിയും അവയെ ബീഗിൾ ചെയ്യാൻ നിങ്ങൾ അവരെപ്പോലെ അവതരിപ്പിക്കരുത് പക്ഷേ അവ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രൂപം പോസിറ്റീവ് ആണെന്ന് കാണുന്നതിന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൃശ്യപരത തെറ്റിധരിച്ചുപോകാം ഞാൻ പലപ്പോഴും പറയുന്നതുപോലെ തെറ്റായ മുഖത്തിന് ഉള്ളിൽ ഒരു തെറ്റായ ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ഉദ്ധരിക്കുന്നു പക്ഷേ കുറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് ഒരു ഭാവം നിലനിർത്താൻ ശ്രമിക്കുക അതുവഴി നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് പ്രതിഫലിപ്പിക്കാൻ കഴിയും തുടർന്ന് സ്വര സവിശേഷതകൾ വരുന്നു ഞങ്ങൾ സ്വര സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേഗത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ വേഗത നിരക്ക് പിച്ച് പെരുമാറ്റം ശബ്ദം ഉപയോഗിക്കുന്ന രീതി എന്നിവ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു അതിനാൽ നിങ്ങളുടെ ശബ്ദം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സ്കൂളിലും കോളേജുകളിലും വർഷങ്ങളായി നിങ്ങൾ നടത്തിയ പരിശീലനത്തെ വെളിപ്പെടുത്തുന്നു തുടർന്ന് രീതികളിലേക്ക് വരുന്നു ഇപ്പോൾ പെരുമാറ്റരീതികളാൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു അഭിമുഖത്തിന് ഉത്തരം നൽകുന്നതിനുമുമ്പ് മറ്റ് ഇന്റർവ്യൂവർ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം നിങ്ങൾ അവരെ നോക്കുന്ന രീതി നിങ്ങൾ വളയുന്ന രീതി ഒരു വഴി തിരിയുന്ന രീതി ചിലപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ അവരെ വ്രണപ്പെടുത്തുന്നു അതിനാൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കമ്പോസറെപ്പോലെയാകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വമാണ് പ്രധാനമെന്ന് നാമെല്ലാവരും ഓർക്കുന്നു അതിനാലാണ് പല സ്ഥലങ്ങളിലും അവർ ഇതിനെ വ്യക്തിത്വ പരിശോധന എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ രേഖാമൂലമുള്ള പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ പല പരീക്ഷകളിലും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവരും ഒരുതരം വ്യക്തിത്വ പരിശോധന നടത്തുന്നു അത് ഒരു വ്യക്തിത്വ പരീക്ഷണമാകുമ്പോൾ അത് നിങ്ങളുടെ വൈദഗ്ധ്യത്തിന്റെ മേഖലകളിൽ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല മനശാസ്ത്രം അളക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു വിദഗ്ദ്ധർക്ക് നിങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങളുടെ കരിയറിൽ വിജയിക്കാനുള്ള ഒരു പ്രധാന ഗുണമാണ് വ്യക്തിത്വം എന്ന് കാർനെഗി പറയുന്നതെന്താണെന്ന് നമുക്ക് ഇവിടെ ഉദ്ധരിക്കാം അതിനാൽ വ്യക്തിത്വം വളരെ പ്രധാനമാണ് വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം മാനേജർ ഒരു വ്യക്തിത്വം കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇവിടെയാണ് അദ്ദേഹം ഒരു ഉദാഹരണം നൽകുന്നത് കാർനെഗി ഒരു ഉദാഹരണം നൽകുന്നു ഒരു വലിയ ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിന്റെ എംപ്ലോയ്മെന്റ് മാനേജർ പറയുന്നു ശാന്തമായ പുഞ്ചിരിയോടെ വന്ന പിഎച്ച്ഡിയുള്ള പെൺകുട്ടിയെ എടുക്കുന്നതിനേക്കാൾ അയാൾ പ്രാധാന്യം കൊടുക്കുന്നത് മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ ഗ്രേഡ് സ്കൂൾ പൂർത്തിയാക്കാത്ത ഒരു സെയിൽസ് പെൺകുട്ടിയെ അയാൾ നിയമിക്കും ഇപ്പോൾ എന്താണ് സാരം റഫർ സമയം 1417 എന്താണ് അർത്ഥം അർത്ഥം തൊഴിലുടമകൾ മികച്ച ആശയവിനിമയക്കാരായ ഒരു സ്ഥാനാർത്ഥിയെ തിരയുന്നു യഥാർത്ഥത്തിൽ ധാരാളം ബിരുദങ്ങളും യോഗ്യതകളും ഉള്ളതിനേക്കാൾ മികച്ച വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളവരാണ് അതിനാൽ കണക്കാക്കാവുന്ന ഒരു വ്യക്തിത്വം നിങ്ങളുടെ കൈവശമുണ്ടെന്ന് പ്രതിഫലിപ്പിക്കുന്നതിനായി നിങ്ങൾ തയ്യാറെടുക്കുന്നു നമ്മുടെ വ്യക്തിത്വം എങ്ങനെ മെച്ചപ്പെടുത്താം നമ്മുടെ അറിവിലൂടെ മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ പ്രത്യക്ഷപ്പെടുന്നതിലൂടെയും നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ കഴിയും ഒപ്പം പ്രത്യക്ഷത്തിൽ കണക്കിലെടുക്കുമ്പോൾ വസ്ത്രധാരണത്തിന്റെ ആദ്യത്തെ പ്രാധാന്യം ചർച്ചചെയ്യാം ഇപ്പോൾ എന്താണ് വസ്ത്രധാരണം നമ്മുടെ വസ്ത്രധാരണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഞങ്ങൾ മുമ്പ് പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു അഭിമുഖത്തിനായി പോകുമ്പോൾ സന്ദർഭത്തിന്റെ ഔപചാരികത നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സന്ദർഭത്തിനനുസരിച്ച് വസ്ത്രധാരണം പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇത് സ്വാഭാവികമായും ഒരു അഭിമുഖമാണെങ്കിൽ മറ്റ് പല വസ്ത്രങ്ങളും ഭംഗിയുള്ള വളരെ അയഞ്ഞ യഥാർത്ഥത്തിൽ സന്ദർഭത്തിന്റെ അനുയോജ്യതയുമായി വസ്ത്രം അണിഞ്ഞു അഭിമുഖത്തിന് പോകണം നിങ്ങളുടെ മുഖഭാവം മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുന്ന വസ്ത്രധാരണത്തോടൊപ്പം ഷൂസും നിങ്ങളുടെ ഹെയർ കട്ട് ഹെയർസ്റ്റൈൽ പിന്നെ മുഖഭാവം തുടർന്ന് നിങ്ങളുടെ ഉത്സാഹം എന്നിവ പ്രധാനമാണ് ഞങ്ങൾ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരാളം പറയുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വസ്ത്രധാരണം തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളുടെ സ്വന്തം ചോയ്സ് ഉണ്ട് ചില അവസരങ്ങൾ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെടുത്താമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു നിങ്ങളുടെ വസ്ത്രധാരണം വളരെ ചെലവേറിയതായിരിക്കണമെന്നത് പ്രധാനമല്ല മറിച്ച് വസ്ത്രധാരണം ലളിതമായിരിക്കരുത് പക്ഷേ വസ്ത്രധാരണം മനോഹരമായിരിക്കണം എന്ന് തോന്നണം ഒരുതരം പെരുമാറ്റങ്ങളും വസ്ത്രത്തിൽ നിന്ന് പ്രതിഫലിക്കണം കാരണം വസ്ത്രധാരണം ഒരു സൂചകമാണ് ഈ സാഹചര്യത്തിലാണ് റിച്ചാർഡ് ബോസ് തന്റെ പുസ്തകത്തിൽ വാട് കളർ ഈസ് മൈ പാരാ സ്യൂട്ട് പറയുന്നത് അവിടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഏതുതരം ജോലി വേണം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം എന്താണ് ഇവയിലൂടെ നിങ്ങൾ വളരെയധികം പ്രകടിപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ ഇവിടെ ഈ ബന്ധത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വസ്ത്രധാരണം വളരെ പ്രധാനമാണ് തുടർന്ന് നിങ്ങളുടെ ഹെയർസ്റ്റൈലിലേക്ക് വരുന്നു ഇപ്പോൾ ചെറുപ്പക്കാർ എന്ന നിലയിൽ ആളുകൾ പിന്തുടരുന്ന വൈവിധ്യമാർന്ന ഹെയർസ്റ്റൈലുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും അവിടെ എല്ലാ സെലിബ്രിറ്റികളെയും അനുകരിക്കുന്നു എന്നാൽ നിങ്ങൾ അഭിമുഖത്തിനായി പോകുമ്പോൾ ഈ പുതിയ ഫാഷനുകളെല്ലാം പ്രധാനമല്ലെന്ന് ഓർക്കുക പ്രധാനം സന്ദർഭത്തിന്റെ അന്തസ്സാണ് അതിനാൽ അസാധാരണമായി തോന്നാത്ത ഒരു ഹെയർ സ്റ്റൈൽ നേടുക കാരണം ഇന്നത്തെ ചെറുപ്പക്കാരുടെ പ്രവണതയാണ് അവരിൽ പലരും വ്യത്യസ്ത സെലിബ്രിറ്റികളുടെ ഹെയർസ്റ്റൈലുകൾ പിന്തുടരുന്നത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഒരു സെലിബ്രിറ്റിയാകേണ്ടതില്ലാത്ത കാലത്തോളം നിങ്ങളുടേതാകുക നിങ്ങൾ ഇത് പ്രയോഗിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മികച്ച ഹെയർസ്റ്റൈലും മറ്റ് രീതികളിൽ മികച്ച സ്റ്റൈലും ഉണ്ടായിരിക്കും മുഖഭാവങ്ങളും വളരെ പ്രധാനമാണ് അതിനാൽ മുഖഭാവം വരുമ്പോൾ നിങ്ങൾ മുഖം സംസാരിക്കുന്നുവെന്നും നിങ്ങളുടെ മുഖം ഈ വികാരങ്ങളെല്ലാം ഉള്ള ഒരു ജംഗ്ഷനായതിനാൽ അസൂയയുടെ വികാരങ്ങൾ റഫർ സമയം 1748 കോപത്തിന്റെ വികാരങ്ങൾ നിരാശയുടെ സുഖകരമായത് പറയുന്ന വികാരങ്ങൾ എല്ലാ വികാരങ്ങളും എഴുതപ്പെടുന്നു അതിനാൽ ആദ്യ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ പ്രവേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മുഖം സംസാരിക്കുന്നുവെന്ന് കാണുക ഒരു സ്ഥാനാർത്ഥി ഇന്റർവ്യൂ റൂമിൽ പ്രവേശിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നും അവൻ എവിടെ നിന്നാണെന്നും ആളുകളോട് പറയുന്നു അതിനാൽ നിങ്ങൾ പ്രവേശിക്കുന്ന രീതി അഭിവാദ്യം ചെയ്യുന്ന രീതി ഇരിക്കുന്ന രീതി നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കുന്ന രീതി വളയുന്ന രീതി ഇവയെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വിവരിക്കുന്നു അതിനാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ കസേരയിൽ ചാരിയിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാണോ എന്ന് അഭിമുഖം നടത്തുന്നവരോട് അല്പം വളയുന്നതിലൂടെ നിങ്ങൾ തയ്യാറെടുപ്പ് കാണിക്കും എന്നിട്ട് നിങ്ങൾ പുറകോട്ട് പോകുമ്പോൾ അസാധാരണമെന്ന് തോന്നാത്ത രീതിയിൽ തിരിയണം ഉഷ്മളതയും ആത്മാർത്ഥതയും അറിയിക്കാൻ കഴിയുന്ന ഒരു മുഖം ഉണ്ടായിരിക്കേണ്ടത് എങ്ങനെ പ്രധാനമാണെന്ന് ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ വളരെയധികം ട്രെൻഡുകൾ ഉണ്ട് എന്നാൽ നിങ്ങൾ ഒരു അഭിമുഖത്തിന് പോകുന്നുവെന്ന് ഓർമ്മിക്കുക അവിടെ നിങ്ങളുടെ അറിവിനുപുറമെ നിങ്ങളുടെ വ്യക്തിത്വവും കണക്കാക്കപ്പെടും അതിനാൽ അത് ആഡംബരപൂർണ്ണമാകരുത് നിങ്ങൾ ഷോയ്ക്കായി വന്നതായി തോന്നരുത് മറിച്ച് നിങ്ങൾ ശരിയായ അഭിമുഖത്തിനായി വന്നതുപോലെ പ്രത്യക്ഷപ്പെട്ടു വാക്കുകളില്ലാതെ ആശയവിനിമയം എന്ന തലക്കെട്ടിൽ ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ ചർച്ചചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനകം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നിങ്ങളുടെ മുടിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ ദയവായി ഒരു നല്ല ചീപ്പും കൈവശം വയ്ക്കുക നിങ്ങളുടെ മുടിക്ക് ശരിയായ പരിചരണം നൽകട്ടെ ഹെയർ സ്റ്റൈൽ ശരിയായി പരിപാലിക്കുന്നില്ലെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നിങ്ങൾക്ക് ഒരു നീണ്ട സൈഡ്ബേൺ ഉണ്ടാകരുത് ഉചിതമായ സന്ദേശം നൽകുന്നതാണ് നല്ലത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെക്കുറിച്ച് നല്ല നിലവാരമുള്ള ഒരു ഷർട്ട് ധരിക്കുമെന്ന് അവർ തീരുമാനിക്കണം അത് വളരെ ചെലവേറിയതായിരിക്കില്ല ഒരു ബട്ടൺ ഡൌൺ അല്ലെങ്കിൽ ക്ലാസിക് കളർ ഷർട്ട് ഷർട്ട് വിലയേറിയതല്ലെങ്കിലും ഇഷ്ടപ്പെട്ടത് കാണുക അത് ശരിയായി കഴുകി ശരിയായി ഇസ്തിരിയിടുന്നു സ്യൂട്ടുകളുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന നിറം കാണുക അസാധാരണമായി തോന്നുന്ന നിറം ധരിക്കരുത് ഇക്കാലത്ത് വളരെയധികം നിറങ്ങൾ ലഭ്യമാണ് എന്നാൽ നേവി നീല നിറമോ ഇരുണ്ട തവിട്ട് നിറമോ ചാരനിറമോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലായ്പ്പോഴും നല്ലതാണ് സ്യൂട്ടുകൾ യഥാർത്ഥത്തിൽ ശരിയായി രൂപകൽപ്പന ചെയ്യണം ഡിസൈനർ സ്യൂട്ടുകളല്ല എന്നാൽ നിങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് വസ്ത്രവും അത് പുതിയതായിരിക്കണം അത് ശരിയായി കഴുകി ശരിയായി വൃത്തിയാക്കണം സന്ദർഭത്തിന്റെ ആവശ്യകത ടൈ ധരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദയവായി അത് ധരിക്കുക പ്രത്യേകിച്ചും ഞങ്ങൾ സാങ്കേതിക സ്ഥാപനങ്ങളിൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ക്യാമ്പസ് പ്ലെയ്സ്മെന്റുകൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു യൂണിഫോം വസ്ത്രധാരണം ലഭിച്ചു എന്നാൽ മറ്റ് അവസരങ്ങളിൽ നിങ്ങൾ ഒരു അഭിമുഖത്തിന് പോകുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിങ്ങൾ ഒരു അലങ്കാരം നിലനിർത്തുന്നുവെന്ന് കാണുക നിങ്ങളുടെ ഷർട്ടുകളും സ്യൂട്ടുകളും തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല നിങ്ങളുടെ ടൈകളുടെ തിരഞ്ഞെടുപ്പിലും ഇത് നല്ല നിലവാരമുള്ള മിശ്രിതങ്ങളാകട്ടെ നിങ്ങൾ വരകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്യൂട്ടിനെ അഭിനന്ദിക്കുന്ന സ്ട്രൈപ്പുകൾ യാഥാസ്ഥിതികമായിരിക്കട്ടെ ടൈയുടെ അഗ്രം ബെൽറ്റിന്റെ മധ്യഭാഗത്ത് അവസാനിക്കണം ഇവ യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ചില രീതി സ്റ്റാക്കുകളാണ് അവസാനത്തിനുമുമ്പ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിനായി സ്കൂളിംഗ് ഇല്ല എന്റെ പ്രിയ സുഹൃത്തുക്കളേ ഇതെല്ലാം പഠിക്കാൻ നിങ്ങൾ അധിക മൈൽ പോകണം കാരണം ഒരു അഭിമുഖത്തിലെ ആദ്യ ദൌത്യം നിങ്ങളെത്തന്നെ അവതാരകനാക്കുക എന്നതാണ് അത് വളരെ പ്രധാനമാണ് വീണ്ടും ഷൂസിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വൈവിധ്യമാർന്ന ചോയ്സുകൾ ഉള്ള ലോകത്താണ് പക്ഷേ ആളുകൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് അനുസൃതമായി പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ലോകം വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായി മാറും പ്രത്യേകിച്ചും അഭിമുഖങ്ങളിൽ നിങ്ങൾ വ്യത്യസ്ത ശൈലികൾക്കായി പോകുന്ന ആളുകളെ കണ്ടെത്തുക ചില സമയങ്ങളിൽ അവർ വളരെ അസാധാരണരാണെന്ന് തോന്നാം അതിനാൽ മിക്ക സമയത്തും നിങ്ങൾ ഷൂസ് തിരഞ്ഞെടുക്കുന്നതിനായി പോകുമ്പോൾ എല്ലായ്പ്പോഴും നല്ലതാണ് നിങ്ങൾ കറുത്ത നിറത്തിനായി പോയി മിനുക്കിയത് കാരണം മിനുക്കിയ ഷൂകൾ മികച്ചതായി കാണപ്പെടും ഡിസൈനർ ഷൂസിനായി പോകരുത് പോയിന്റുചെയ്ത സെറ്റുകൾക്കും എല്ലാം പോകരുത് ഒപ്പം ഷൂസിന്റെ നിറം കറുപ്പോ തവിട്ടുനിറമോ ആണെങ്കിൽ നന്നായിരിക്കും സോക്സുകൾ ഇരുണ്ട സോക്സായിരിക്കട്ടെ ഫാഷന് ഒരു അഭിമുഖത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഷൂകളെക്കുറിച്ച് പ്രത്യേകമായി അറിയേണ്ടത് അപ്പോൾ ഫേഷ്യൽ ഹെയർ വരുന്നു പലർക്കും താടികളോടുള്ള അഭിനിവേശം ഉണ്ടാവാം നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കാമെന്ന വസ്തുത നിഷേധിക്കാനാവില്ല പക്ഷേ അത് അവിടെ ഉണ്ടെങ്കിൽ അത് മനോഹരമായി കാണുന്നതിന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അവർ കുറച്ച് സൂചനകൾ നൽകുന്നു നിങ്ങളുടെ അശ്രദ്ധയെക്കുറിച്ച് മീശയുണ്ടാകുമ്പോൾ നിരവധി ആളുകൾക്ക് വ്യത്യസ്ത ധാരണകളുണ്ട് എന്നാൽ നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ അത് ഒരു അലങ്കാരമായി കാണപ്പെടട്ടെ നിങ്ങളുടെ മുഖത്ത് കുറച്ച് മുടിയുണ്ടെങ്കിൽ താടിയുണ്ടെങ്കിൽ അത് ശരിയായി വെട്ടിമാറ്റാൻ അനുവദിക്കുക ധാരാളം ആളുകൾ നിർദ്ദേശിക്കുന്നു ഞാനും ഇത് നിർദ്ദേശിക്കുന്നു പ്രത്യേകിച്ച് നഖങ്ങൾ വെട്ടിമാറ്റാൻ കൂടുതൽ ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാർ അതിനാൽ അവർ ശുചിത്വത്തിൽ വിശ്വസിക്കണം അവരുടെ നഖങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട് ആഭരണങ്ങൾ ധരിക്കാൻ നമ്മിൽ പലർക്കും ഇടയിൽ ഒരു ഫാഷനുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും ആഭരണങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളുടെ അഭിമുഖത്തെക്കാൾ ജ്വല്ലറിയെക്കുറിച്ചാണ് അതിനാൽ ആഭരണങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കുന്നത് എന്തുകൊണ്ട് ആഭരണങ്ങളൊന്നും ഇല്ലാത്തതാണ് നല്ലത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞത് എന്തെങ്കിലും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ബാൻഡുകളില്ല നെക്ലേസുകളില്ല അല്ലാത്തപക്ഷം അവ നിങ്ങൾക്ക് ഒരു ഭാരമായിത്തീരുമെന്ന് നിങ്ങൾക്കറിയാം അല്ലാത്തപക്ഷം അവ നിങ്ങൾക്ക് ഒരു ഭാരമായിത്തീരുമെന്ന് നിങ്ങൾക്കറിയാം ആളുകൾക്ക് മോതിരങ്ങൾ ഇല്ലെങ്കിൽ നല്ലതാണെന്ന് വിദഗ്ദ്ധർ പോലും പറയുന്നു എന്നാൽ നമ്മുടെ രാജ്യത്ത് പലരും മോതിരങ്ങൾ ധരിക്കണമെന്ന് കരുതുന്നു പക്ഷേ അത് ഏറ്റവും കുറഞ്ഞത് നിലനിർത്തട്ടെ ഇപ്പോൾ നിങ്ങൾ ഫാഷൻ ട്രെൻഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർക്കിടയിൽ അവർ സിനിമകൾ പിന്തുടരുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അവർ ചിലപ്പോൾ കമ്മലുകൾ ധരിക്കാൻ തുടങ്ങും എല്ലാം നല്ലതല്ല അതിനാൽ അതും ഒഴിവാക്കണം ഇപ്പോൾ ഒരു പ്രതിനിധി എങ്ങനെ പ്രത്യേകിച്ച് പരിചയസമ്പന്നർക്കായി നിങ്ങൾ എങ്ങനെ ആകണം അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോലികൾക്കായി പോകുന്നവർ എന്നിവരുടെ ഒരു സാമ്പിൾ ഇവിടെയുണ്ട് അവർക്ക് അവരുടെ നിറങ്ങളുടെ അതേ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കാം അത് കറുപ്പോ നീലയോ ആയിരിക്കണം ചുവപ്പല്ല അതിനാൽ രണ്ട് പീസ് സ്യൂട്ട് നേവി ബ്ലൂ അല്ലെങ്കിൽ മറ്റൊരു ഇരുണ്ട നിറം ലളിതമായ പാറ്റേൺ ലഭിച്ച ഒരു ടൈ ബട്ടൺ ഡൺ ഡ്രസ് ശരിയായ ഹെയർകട്ട് ചെറിയ മുടി എല്ലായ്പ്പോഴും മികച്ചതാണ് അതിനാൽ പ്രത്യേകിച്ചും ഞങ്ങൾ അഭിമുഖത്തിനായി പോകുമ്പോൾ ചെറിയ മുടിയിഴകൾ അനുവദിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രീഫ്കേസ് വഹിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും സാഹചര്യത്തെ ആശ്രയിച്ച് സാഹചര്യത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ച് അത് കൈവശമുള്ള പേപ്പറുകൾക്കായി ചില കൊളോണുകളോ സുഗന്ധമോ ഇടുന്നതിലൂടെ ആളുകൾ അനാവശ്യമായി പ്രശ്നങ്ങളെ ക്ഷണിക്കുന്നുവെന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽ കൊളോണുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോര്ട്ട്ഫോളിയൊ കേസോ ലൈറ്റ് ബ്രീഫ്കേസോ ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ഞങ്ങൾ വസ്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ സ്ത്രീകളും അവസരത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കണം അവർ അന്തസ്സും കാത്തുസൂക്ഷിക്കണം അവരുടെ വസ്ത്രധാരണം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും യാഥാസ്ഥിതിക ബിസിനസ്സ് സ്യൂട്ട് അല്ലെങ്കിൽ മൃദുവായ നിറത്തിൽ പ്രകൃതിദത്ത നെയ്ത മിശ്രിത തുണികൊണ്ടുള്ള വസ്ത്രധാരണം അനുവദിക്കുക അത് ചർമ്മത്തിനും മുടിയുടെ നിറത്തിനും യോജിച്ചതായിരിക്കും നിങ്ങൾക്ക് ഒരു പൂർണ്ണ വസ്ത്രം ധരിക്കാൻ കഴിയുമെങ്കിൽ എല്ലായ്പ്പോഴും നല്ലതാണ് അഭിമുഖം ഒരു ഓദ്യോഗിക അവസരമാണെന്ന് ഇപ്പോൾ ഓർക്കുക ചെരിപ്പുകൾ വീണ്ടും തീരുമാനിക്കുമ്പോൾ അവ മിനുക്കിയതും ഹീൽസ് വളരെയധികം പാടില്ല കാരണം ചില സമയങ്ങളിൽ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നു നിങ്ങൾ ഒരു അഭിമുഖത്തിനായി പോകുമ്പോൾ നിങ്ങൾ അനായാസം പ്രത്യക്ഷപ്പെടുന്നതായി കാണുക നിങ്ങളുടെ പതിവ് പോലെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അത് സ്വയമേവയുള്ളതിനേക്കാൾ മികച്ചതാണ് അവിടെ ആത്യന്തികമായി പരാജയത്തിലേക്ക് നയിച്ചേക്കാവുന്ന എല്ലാ കാഴ്ചപ്പാടുകളും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ചില സമയങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പേഴ്സ് ഉണ്ടെങ്കിൽ അത് വഹിക്കേണ്ടതുണ്ടെന്നും മനസ്സിലായി അതിനാൽ വളരെ നീണ്ട ഒരു പേഴ്സ് വേണ്ടെന്ന് ദയവായി തീരുമാനിക്കുക നെയിൽ പോളിഷിന്റെ നിറം തീരുമാനിക്കുമ്പോൾ ഇതും വളരെ താഴ്ന്ന നിലയിലാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം മാത്രമല്ല നിങ്ങൾ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വാധീനം നൽകരുത് തുടർന്ന് ജ്വല്ലറിയുടെ കാര്യം വരുമ്പോൾ നമുക്ക് ലളിതമായിരിക്കാൻ ശ്രമിക്കാം നമുക്ക് ആഭരണങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഉപയോഗം നടത്താം പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ഒരു കൂട്ടം കമ്മലുകൾ ചെയ്യും ഓരോ കൈയിലും ഒന്നിൽ കൂടുതൽ മോതിരം ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ വസ്ത്രധാരണത്തിനുശേഷം വരുമ്പോൾ ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് കാരണം ഇത് നിങ്ങളുടെ ശബ്ദമാണ് നിങ്ങൾ പ്രതികരിക്കും ശബ്ദം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആവിഷ്കാരത്തിന്റെ വാഹനമാണ് അതിനാൽ നിങ്ങൾക്ക് കേൾക്കാനാകുമെന്ന് നിങ്ങളുടെ ശബ്ദം വ്യക്തമാണ് അത് വ്യക്തമാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങളെ അഭിമുഖം നടത്തുന്ന ആളുകൾക്ക് കേൾക്കാനാകും നിങ്ങളുടെ ശബ്ദം വളരെ വേഗതയുള്ളതോ വളരെ വേഗത കുറഞ്ഞതോ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കാൻ കഴിയും ഒപ്പം അന്തർലീനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കാം പക്ഷേ ഉച്ചാരണത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം പിന്തുടരുന്നത് നല്ലതാണ് മനസിലാക്കാൻ കഴിയുന്ന ഒരു തരം സ്റ്റാൻഡേർഡ് ഒന്ന് മറ്റ് ചില രാജ്യങ്ങളിൽ അനുവദനീയമായ തരത്തിലുള്ള ആക്സന്റൽ പാറ്റേണുകൾ നിങ്ങൾ പിന്തുടരേണ്ടതില്ല എന്നാൽ പ്രത്യേകിച്ചും നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഏത് വാക്കും യഥാർത്ഥത്തിൽ വ്യക്തമായി ആവിഷ്കരിക്കപ്പെടുന്നുവെന്നും അവ മറ്റ് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാമെന്നും മനസ്സിലാക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്നും ശരിയായ ശബ്ദം നൽകി നിങ്ങൾക്ക് ചെയ്യാനാകുമെന്നും നിങ്ങൾ തെളിയിക്കണം അൺവെർബൽ സൂചനകളും സ്വര സവിശേഷതകളും അൺവെർബൽ ആശയവിനിമയം അല്ലെങ്കിൽ വാക്കുകളില്ലാതെ ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തു എന്നാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഒരു താൽക്കാലിക വിരാമമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഈ ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഓർക്കുക അവർ നിങ്ങളെ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ വെറുതെ ഇരിക്കുകയല്ലെന്നും നിങ്ങളെ ഇല്ലാതാക്കാൻ അതിനാൽ പോസിറ്റീവായിരിക്കുക നിങ്ങളുടെ അനൌപചാരിക ക്യൂകളും നിങ്ങളുടെ നിശബ്ദതയും താൽക്കാലികമായി നിർത്തുകയും ചെയ്യുക ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കോമിക്സ് യാത്ര കാണാനാകും ഈ സ്ലൈഡുകളെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ഇവിടെ വളരെ പ്രധാനപ്പെട്ട രീതികൾ പ്രദർശിപ്പിക്കുന്നു നിങ്ങളോട് എന്തെങ്കിലും ഉത്തരം ചോദിക്കുമ്പോൾ ഈ പെരുമാറ്റം എന്നാൽ ചിലപ്പോൾ അവർ നിങ്ങളെ വിധിക്കാൻ ശ്രമിക്കുന്ന അഭിമുഖക്കാരെ കണ്ടെത്തും നിങ്ങളെ പരിശോധിക്കാൻ പോകുന്നു അതിനാൽ അവർ ചോദ്യം തിരിക്കാൻ ശ്രമിക്കുന്നു അതുവഴി നിങ്ങൾക്ക് അമ്പരപ്പുണ്ടാകും എന്നാൽ ആ സമയത്തും നിങ്ങളുടെ മര്യാദ പാലിക്കണം നിങ്ങൾ വഴക്കമുള്ളവനായിരിക്കണം അവർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കേണ്ടതും നിങ്ങളുടെ തന്ത്രം കാണിക്കുന്ന രീതിയിൽ ഉത്തരം നൽകേണ്ടതുമാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും അല്ലെങ്കിൽ അവർ എറിയുന്ന ഓരോ വാക്കിനും ചില സൂചനകളോ അർത്ഥമോ ലഭിച്ചു വളരെയധികം ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ബോധ്യത്തോടെ അവതരിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ചുമതല അത് വരും ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇതെല്ലാം നിങ്ങൾ എന്റെ പ്രിയ സുഹൃത്ത് കണക്കിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കപ്പെടാൻ മാത്രമല്ല മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ മുന്നിൽ നിൽക്കേണ്ട സമയമായി എന്ന് ഞാൻ കരുതുന്നു അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങൾ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും കൂടാതെ വിഷമകരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളുടെയും ക്ഷമയാണ് പ്രധാനമെന്ന് ദയവായി മനസിലാക്കുക നിങ്ങൾ നന്നായി തയ്യാറാക്കിയാൽ നിങ്ങൾ നന്നായി ചെയ്യും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒന്നും നിങ്ങളെ ജോലിയിൽ നിന്ന് തടയാൻ പോകുന്നില്ല അവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ഭാവി ജീവനക്കാരനാണെന്ന് നിങ്ങൾ ന്യായീകരിച്ചു അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും നിങ്ങൾ ധൈര്യത്തോടെയും നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കാൻ പോകുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ ജോലികൾ ധാരാളമുണ്ട് അതിനാൽ നിങ്ങൾ ഒരു അവസരം നൽകുന്നു എന്നാൽ റിക്രൂട്ട് ചെയ്യുന്നവരുടെ പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം ആത്മവിശ്വാസം യോഗ്യത പ്രതിബദ്ധത ഉത്സാഹം എന്നിവ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കേണ്ടതുണ്ട് പ്രിയ സുഹൃത്തുക്കളേ നിങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ആ അഭിമുഖത്തിൽ നിങ്ങൾക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത് വാതിൽ അടച്ചിട്ടില്ല ലോകം ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്ന അവസരങ്ങളുണ്ട് നമുക്ക് പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ച് നമുക്ക് എങ്ങനെ വിടവാങ്ങാമെന്ന് നോക്കാം നിങ്ങൾക്ക് നന്നായി ധൈര്യപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നന്നായി യാത്ര ചെയ്യാൻ കഴിയൂ വളരെ നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു